ഹലോ ക്ലൌഡ് കമ്പ്യൂട്ടിംഗി അരികിൽ ലഭിക്കാൻ വളരെയധികം സമയമെടുക്കും ഇത് കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ ചിലത് നെറ്റ്വർക്കിന്റെ മാനേജുമെന്റ് പോലുള്ള പ്രത്യേക ആപ്ലിക്കേഷനുകൾ പോലെ അതിനാൽ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള വസ്തുക്കളുമായി ഇത് കൂടുതൽ ഇടപെടും എല്ലാ ഡാറ്റൽ നിന്ന് അല്പം താഴേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ ഫോഗിംഗ് അല്ലെങ്കിൽ ഫോഗ് കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത് എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്നും വിതരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസങ്ങൾ എന്നും വിളിക്കുന്നു സ്കേലബിളിറ്റി അനന്തമായ സ്കെയിലിംഗ് അല്ലെങ്കിൽ സ്കെയിലിംഗ് പേ അല്ലെങ്കിൽ മീറ്റർ ചെയ്ത സേവനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ സൌജന്യ തരത്തിലുള്ള സാഹചര്യങ്ങൾ ക്ലൌഡ് നൽകുന്ന മറ്റ് സവിശേഷതകൾ എന്നിവ പോലുള്ള ക്ലൌഡിന്റെ ഇന്റർമീഡിയറ്റിലോ അരികിലോ ചെയ്യാം അതിനാൽ ഇത് വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ കൊണ്ടുവരും ഇന്നത്തെ സംഭാഷണത്തിൽ ഇത് കാണാൻ നമ്മൾ ശ്രമിക്കും ഫോഗ്ൽ വിഭവസമൃദ്ധമല്ല ബാക്കെൻഡിൽ എവിടെയും വിഭവസമൃദ്ധമല്ല ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ വിജയത്തിനായി വലിയ അളവിൽ ഒരു റിസോഴ്സ് മാനേജ്മെന്റ് ആവശ്യമാണ് അതിനാൽ ഫോഗ് കമ്പ്യൂട്ടിംഗിയിൽ നിന്ന് ഒരുതരം വിജ്ഞാന ഖനനം നടത്താം അവിടെ നമുക്ക് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള അൽഗോരിതങ്ങൾ ഉണ്ട് എന്നാൽ ക്ലൌഡ് ൽ നിന്നുള്ള മറ്റ് വിവരങ്ങളും കണ്ടെത്തുന്നതിന് സമയമെടുക്കും ആ കാലയളവിൽ കുറച്ച് അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിരിക്കാം അതിനാൽ ഇത് ക്ലൌഡി ഉപയോഗിക്കുന്നു ഫോഗ് കമ്പ്യൂട്ടിംഗ്യിൽ നിന്ന് ഉൾക്കാഴ്ച നേടുകയും ചെയ്യുന്നു ഈ ഫോഗ് പരിസ്ഥിതിയിൽ ഇത് നോക്കാൻ ശ്രമിക്കുന്നതും ഇതാണ് ഇപ്പോൾഫോഗ് ഉണ്ടാക്കാമെന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് പ്രത്യേകമായി ഇൻസ്റ്റാൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ പ്രാദേശികവൽക്കരിച്ച പ്രതിഭാസങ്ങൾ ഉപയോഗിക്കാം അതിനാൽ നമ്മൾ കാണുന്നത് കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ കൂടുതൽ സംഭരണം ഈ അറ്റങ്ങളിൽ അതിനാൽ കൂടുതൽ കമ്പ്യൂട്ടിംഗ് തീവ്രമായ ആപ്ലിക്കേഷനുകൾ മറ്റേ അറ്റത്തേക്ക് തള്ളാം അതേസമയം കൂടുതൽ സംവേദനാത്മകമോ കൂടുതൽ പ്രതികരിക്കുന്നതോ താഴത്തെ അറ്റത്ത് ആകാം ഇതിന്റെ 2 വശങ്ങൾ ഇന്റർമീഡിയറ്റിൽ ഇതിന് ഫോഗ് സമാഹരിക്കാനും കഴിയും അതിനാൽ നമ്മൾ ക്ലൌഡും ഫോഗും തമ്മിൽ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ ഇവ മുമ്പത്തെ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തതുപോലെ ഇവ മത്സരപരമായ മാർഗങ്ങളല്ല അതായത് ഒന്ന് മറ്റൊന്നിനാൽ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല അതിനാൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നത് അവ ഒരു കമ്പാനിയൻ മോഡിലായിരിക്കണം ക്ലൌഡിൽ പ്രവർത്തിക്കണം അതിനാൽ ക്ലൌഡ് കൾ സ്ഥിതിചെയ്യുന്നിടത്ത് അത് ഇന്റർനെറ്റിലാണ് ആമസോൺ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഐബികളിൽ സേവനങ്ങൾ എവിടെയാണ് നൽകുന്നത് എന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല അതിനാൽ നമ്മൾ എന്തുചെയ്യും നമ്മൾ അടിസ്ഥാനപരമായി അവരുടെ പോർട്ടലിലൂടെയോ ലിങ്കിലൂടെയോ കണക്റ്റുചെയ്യുന്നു നമ്മുടെ അപ്ലിക്കേഷൻ എവിടെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തതുപോലെയല്ല നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്നിരുന്നാലും അവർ അത് അവരുടെ റിസോഴ്സ് മാനേജ്മെൻറിലും പ്രൊവിഷനിംഗ് ഭാഗത്തും ചെയ്യുന്നു അതിനാൽ നമ്മൾ ഇന്റർനെറ്റിൽ പറയുന്നത് ഇതാണ് നിങ്ങൾ ആ ഫോഗിൻറെ ന്റെ അരികിൽ കൂടുതലാണ് ഞാൻ താപനില സെൻസിംഗ് സമാഹരിക്കുകയാണെങ്കിൽ പത്തോ അതിലധികമോ സെൻസറുകളുള്ള ഈ പ്രത്യേക മുറിയുടെ രൂപകൽപ്പന എടുക്കുക ഇതെല്ലാം പ്രാദേശികമായി ചെയ്യപ്പെടും കൂടാതെ ഈ പ്രത്യേക മുറിയിലെ സെർവർ അതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ചില സമയങ്ങളിൽ ഇത് ഉപയോഗപ്രദമാണ് കാരണം എന്തെങ്കിലും തിരക്ക് ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ നമുക്ക് അത് അവിടെത്തന്നെ പരിഹരിക്കാനാകും സുരക്ഷാ പഴുതുകൾ പോലുള്ള മറ്റ് വെല്ലുവിളികളും ഉണ്ട് ആ പ്രത്യേക ലാബിന്റെയോ മുറിയുടെയോ സെർവറിൽ താപനില മനസ്സിലാക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് എനിക്കറിയാമെങ്കിൽ അപ്പോൾ എനിക്ക് അടിസ്ഥാനപരമായി ആ സെർവറിനെ ആക്രമിക്കാൻ കഴിയും അത് താപനിലയിലോ പരിസ്ഥിതി സെൻസിംഗിലോ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ചെയ്യുന്നു എന്നിട്ട് എല്ലാം ശരിയായി നടക്കുന്നുവെന്ന് ഞാൻ പറയുന്നു അതിനാൽ പതനം സംഭവിക്കാം രണ്ടാമതായി ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിറവേറ്റുന്നതിന് അത് വിഭവസമൃദ്ധമായിരിക്കണം ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ ഇത് ഒരു ഹോപ്പ് ആണ് അതിനാൽ അവ ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് ഒരു ഹോപ്പ് അകലത്തിലാണെന്നാണ് ഇതിനർത്ഥം ക്ലൌഡ് കമ്പ്യൂട്ടിംഗിളോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇവയെല്ലാം ആ സേവന ദാതാവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്

ഡാറ്റൽ നമ്മൾ പ്രാഥമികമായി ലൊക്കേഷൻ അവബോധ തരം കാര്യങ്ങൾ ചെയ്യുന്നു മറ്റ് കാര്യങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായ വിതരണം ഒരു ക്ലൌഡ്

ആദ്യം അത് ഒരു പാതയിലൂടെ കൊണ്ടുപോകുന്നു തുടർന്ന് അത് മറ്റൊരു പാതയിലേക്ക് നീങ്ങുന്നു അതേസമയം ഫോഗ് മറ്റ് കാര്യങ്ങളും എടുക്കുന്നു ഏത് നിയന്ത്രണമാണ് വളരെ താഴ്ന്ന തലത്തിൽ കൈമാറ്റം ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്നിവ പോലുള്ള കാര്യങ്ങൾ ഇതിന് മുൻകൂട്ടി അറിയാം തത്സമയ അപ്ലിക്കേഷനുകൾ പ്രക്രിയകളാണ് അതിനാൽ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഫോഗ്നെ കുറച്ചുകൂടി പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും രണ്ടിനും പ്രാധാന്യമുണ്ട് ക്ലൌഡും ഫോഗും തമ്മിലുള്ള ശരിയായ സമന്വയം എല്ലാം യാഥാർത്ഥ്യമാക്കും അതിനാൽ നിരവധി ഉപയോഗ കേസുകളുണ്ട് അല്ലെങ്കിൽ ഫോഗ് പാതകളുള്ള ഒരു വലിയ കെട്ടിടമാണെങ്കിൽ തീ ഭൂകമ്പം പോലുള്ള എന്തെങ്കിലും മഹാദുരന്തമുണ്ടെങ്കിൽ സ്ഥിര പാതകൾ പൂട്ടിയിരിക്കാം അതിനാൽ നിങ്ങൾ എന്തുചെയ്യണം ഓരോ തലത്തിൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗപ്രദമാകാം അതിനാൽ വലിയ സെൻസർ എടുക്കുകയും തിരക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സമാഹരിച്ച ഡാറ്റയെയും മുഴുവൻ ചട്ടക്കൂടുകളെയും പ്രേരിപ്പിക്കുന്നു ഓരോ തവണയും ഒരു ആഗോള DSM തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഒരു പ്രാദേശിക DSM പ്രധാനമാണ് നമ്മൾ പ്രയോഗക്ഷമത പരിശോധിച്ചാൽ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേയുള്ളൂ നൂറുകണക്കിന് എണ്ണം കൂടി അവിടെയുണ്ട് അവയിൽ ചിലത് സ്മാർട്ട് ട്രാഫിക് ലൈറ്റിംഗ് പ്രവർത്തിക്കുന്നതിന് ഇത് ഈ നട്ടെല്ല് നൽകുന്നു അതിനാൽ കണക്റ്റുചെയ്ത വാഹന വിന്യാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കാറിൽ നിന്ന് കാറിലേക്ക് കാറിൽ നിന്ന് ആക്സസ്സ് പോയിന്റുയുടെയും ആശയവിനിമയത്തിന്റെയും സമൃദ്ധമായ ഒരു രംഗം പ്രദർശിപ്പിക്കുന്നു അതിനാൽ വാഹന ഇൻഫ്രാസ്ട്രക്ചറിണ്ട് അതിനാൽ വ്യത്യസ്ത വാഹനങ്ങളും വ്യത്യസ്ത ഇൻഫ്രാസ്ട്രക്ചറു പോലുള്ളവയും ഉണ്ട് അതിനാൽ അവിടെയുള്ള വിവരങ്ങളാണിവ എല്ലാവർക്കും ആശയവിനിമയം നടത്താൻ കഴിയുന്ന മൊത്തത്തിലുള്ള ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ തീരുമാനം എടുക്കാമായിരുന്നു കാരണം ഇവിടെയുള്ള അപകടത്തിന് മറ്റ് നഗരങ്ങളിൽ എവിടെയെങ്കിലും പോകുന്നതിനോ അല്ലെങ്കിൽ അതേ നഗരത്തിലുള്ള മറ്റേതെങ്കിലും ഭാഗത്തേക്കോ പോകുന്ന റോഡുമായി ഒരു ബന്ധവുമില്ല ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കണക്റ്റുചെയ്ത വാഹന പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഒരു ആശയം ഇതിനകം ഇവിടെയുണ്ട് അതാണ് VANET വാഹന അഡ്ഹോക് നെറ്റ്വർക്ക് അതിനാൽ ഇത് വിജയകരമാക്കാൻ ഫോഗ് ഉണ്ട് അതിനാൽ നമ്മൾ കാണുന്നതുപോലെ ബാക്കെൻഡിൽ നമുക്ക് ആവശ്യമാണ് അതിനാൽ ഇത് ഒരു സംവിധാനമാണ് അതിനാൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഈ ഫോഗ് പാളി സഹായിക്കുമെന്ന് നമ്മൾ കാണുന്നു നമ്മുടെ രാജ്യം വളരെയധികം വ്യാപകമായിരിക്കില്ലെങ്കിലും അത് വലിയ തോതിൽ അല്ലെങ്കിലും ഒരു സ്മാർട്ട് ഗ്രിഡു എടുക്കുകയും ചെയ്യുന്നു ഇത് ഊർജ്ജ നിലയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ രാജ്യത്തുടനീളമോ അല്ലെങ്കിൽ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തുടനീളമുള്ള മൊത്തത്തിലുള്ള ഊർജ്ജ മാനേജുമെന്റിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും ഇവിടെയും ഫോഗ് കമ്പ്യൂട്ടിംഗ് എടുക്കുകയും ചെയ്യുന്നു അതിനാൽ ഉപകരണങ്ങളിലോ വൈദ്യുതി ഉപഭോക്താക്കളിലോ ഉള്ളിടത്ത് ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്രദമാണ് തുടർന്ന് മൈക്രോഗ്രിഡുകളും നമുക്ക് ഉണ്ട് എന്നിട്ട് നമുക്ക് ഒരു മൈക്രോ സ്റ്റേഷൻകൾ പോലെ വിഭവസമൃദ്ധമല്ല അതിനാൽ കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് അവർക്ക് പിന്തുണ നൽകാൻ കഴിയും അതിനാൽ അത്തരമൊരു ആപ്ലിക്കേഷനാണെങ്കിൽ അതിലും വലിയ കാര്യം ആവശ്യമാണ് അതിനാൽ നിങ്ങൾ അത് ഏറ്റവും വലുതും അതിനനുസരിച്ച് വിഭജിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഫോഗ് ചെയ്യാൻ കഴിയുമോ എന്നത് അതിനാൽ ഇവ നോക്കേണ്ടതുണ്ടെങ്കിൽ ഗുരുതരമായ വെല്ലുവിളികളുണ്ട് അതിനാൽ സേവനങ്ങളുടെ എൻഡ് ടു എൻഡ്നെക്കുറിച്ചുള്ള അവസാന ചർച്ചയിലോ നമ്മൾ ചർച്ച ചെയ്ത സുരക്ഷാ വശങ്ങൾ ഗുരുതരമായ വെല്ലുവിളിയാണ് അതിനാൽ ഫോഗ് ആവശ്യമാണ് ഒപ്പം ചിലവും മറ്റും കൂടുതൽ അളക്കാവുന്ന സംവിധാനങ്ങൾ അതിനാൽ സ്കേലബിളിറ്റിയാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളുടെയും കാതൽ ക്ലൌഡ് എങ്ങനെ ഉണ്ടായിരിക്കാം അതിനാൽ കുറച്ചുകൂടി നോക്കിയാൽ എക്സിക്യൂട്ട് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടാകാം അതിനാൽ എനിക്ക് മൈഗ്രേഷൻ എങ്ങനെ കണ്ടെത്താം അതിനാൽ ചില അൽഗോരിതം മാറ്റേണ്ടതുണ്ട് അതിനാൽ വിവിധ ഫോഗ് നോഡു മറ്റൊന്നിൽ വിട്ടുവീഴ്ച ചെയ്തേക്കാം അതിനാൽ ഒരേ ഡാറ്റ കുറഞ്ഞ വിഭവങ്ങൾ നൽകുന്നു അടുത്തുള്ള നോഡിലേക്ക് വില കുറയ്ക്കുക എന്നിവയാണ് അതിനാൽ നമുക്ക് കാര്യങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ കഴിയും ഡോക്കർ എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു സേവനമുണ്ട് ഡോക്കറിനെ വിന്യസിക്കുന്നതിനുള്ള ഒരു എഡ്ജ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം വേഗത്തിലുള്ള വിന്യാസം ഇലാസ്തികത മികച്ച പ്രകടനം എന്നിവ സുഗമമാക്കാം അതിനാൽ ഉപഭോക്തൃ ഗവേഷണ വിലകൾ മുതലായവയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉപേക്ഷിക്കുന്ന സാധ്യതയെ അടിസ്ഥാനമാക്കി റിസോഴ്സ് മാനേജ്മെൻറ് പ്രയോഗിക്കുക അതിനാൽ ആളുകൾ ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്ക് കാണാനാകുന്നതുമായ വ്യത്യസ്ത രീതികളാണ് ഇവ ഇവിടെ ധാരാളം ഗവേഷണ പ്രചോദനങ്ങൾ ഉണ്ട് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള വശങ്ങൾ പരിശോധിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്ന ഒരു ഫീൽഡാണിത് സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല അതിനാൽ നമ്മൾ ഇവിടെ ഊന്നിപ്പറയാൻ ശ്രമിക്കുന്നത് സുരക്ഷയും ഒരു പ്രധാന വെല്ലുവിളിയാണ് കാരണം നമുക്ക് ഒരു റിസോഴ്സ് പൂളിലോ റിസോഴ്സ് ഹംഗ്റി ഉപകരണം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് ഉചിതമായ വലുപ്പം ആവശ്യമാണ് അതിനാൽ സുരക്ഷ എന്നത് ഒരു പ്രധാന പ്രശ്നമാണ് അത് ഡാറ്റഉപകരണങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്നോ എത്ര കരുത്തുറ്റതാണെന്നോ ഒരു പ്രധാന വെല്ലുവിളിയാണ് ആളുകൾ ഇത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു നമ്മൾ ഇന്നത്തെ സെഷൻ നിർത്താൻ പോകുന്നു അതിനാൽ നമ്മൾ ചർച്ച ചെയ്തത് ഫോഗി ക്ലൌഡ് എന്നിവയുടെ സംയോജനം സാങ്കേതികവിദ്യയിലുടനീളം കാര്യങ്ങളുണ്ടെന്നത് അങ്ങനെയല്ല പകരം ശരിയായ സമന്വയവും അവയ്ക്കിടയിലുള്ള ഓർക്കസ്ട്രേഷനും ഈ ചട്ടക്കൂട് വിജയകരമായി നടപ്പിലാക്കുന്നതിനുള്ള യഥാർത്ഥ മാർഗമാണ്